കോമൺ സോഴ്സ് ആംപ്ലിഫയർ ടോപ്പോളജികൾ നമ്മൾ ഇപ്പോൾ മനസിലാക്കി രണ്ട് പോർട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന ആംപ്ലിഫയറാണ് ഇത് പക്ഷേ ട്രാൻസിസ്റ്ററിനായി ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കുന്നതിന് നമുക്ക് ചില അധിക ഘടകങ്ങൾ ഉണ്ട് ഇവയും സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഗെയിനിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ MOS ട്രാൻസിസ്റ്ററിന്റെ മോഡലിലേക്ക് മടങ്ങുന്നു MOS ട്രാൻസിസ്റ്ററിന്റെ പ്രത്യേക വിശദാംശങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഇത് ഗെയിൻ കുറയ്ക്കുന്നുവെന്നും ഇതിൽ നിന്നു മനസിലാക്കാം IDVDS അല്ലെങ്കിൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് പോർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് VGS ന്റെ വ്യത്യസ്ത വാല്യൂകൾക്കായി നമുക്ക് കർവുകളുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു തീർച്ചയായും V T യേക്കാൾ VGS കുറവാണെങ്കിൽ കറൻറ് പൂജ്യമായിരിക്കും VGS 2 വോൾട്സ് ആണെന്ന് വിചാരിക്കുക ഉദാഹരണങ്ങളിൽ ഞാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന അതേ ട്രാൻസിസ്റ്ററിനെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുകയാണ് ഇത് 1 വോൾട്ടിന്റെ ത്രെഷോൾഡ് വോൾട്ടേജുള്ള ഒരു ട്രാൻസിസ്റ്ററും 100 മൈക്രോ ആമ്പിയർ വോൾട്ട് സ്ക്വയറിന്റെ കറൻറ് ഫാക്ടറും ഉള്ള ട്രാൻസിസ്റ്റർ ആണ് VGS 2 വോൾട്ട് ആകുമ്പോൾ കറൻറ് കൂടി 50 മൈക്രോ ആമ്പിയറിൽ സാച്ചുറേറ്റ് ആവുമെന്നു നമുക്കറിയാം ഇതാണ് വോൾട്സ് യൂണിറ്റ് ഉള്ള VDS VGS നെതിരെയുള്ള ID ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ കേസിൽ സാച്ചുറേഷൻ മേഖലയിൽ ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതായത് VDS ആവശ്യത്തിന് വലുതാണെന്ന് കണക്കാക്കുന്നു നമുക്ക് ഒരു പരാബോള ലഭിക്കും ഇത് വോൾട്ടിലാണ് ഇത് മൈക്രോ ആമ്പിയറുകളിലാണ് 2 വോൾട്ടുകളുടെ ഒരു VGS ന് നമുക്ക് 50 മൈക്രോ ആമ്പിയർ ഉണ്ട് 3 വോൾട്ടിന് നമുക്ക് 200 ഉണ്ട് കൂടാതെ 4 വോൾട്ടിനു നമുക്ക് 450 ഉണ്ട് ഒരു വോൾട്ട് ഉള്ള VGS ന്റെ ഔട്ട്പുട്ട് സവിശേഷതകൾ എന്താണെന്നു വെച്ചാൽ ഇത് 50 മൈക്രോ ആമ്പിയറുകളിൽ സാച്ചുറേറ്റാകുന്നു 3 വോൾട്ടിന്റെ VGS ആണെങ്കിൽ ഇത് 200 മൈക്രോ ആമ്പിയറുകളായി സാച്ചുറേറ്റാകുന്നു നാല് വോൾട്ടുകളുടെ VGS 450 മൈക്രോ ആമ്പിയറുകളിൽ സാച്ചുറേറ്റാകുന്നു ഇവിടത്തെ പ്രധാന അനുമാനം ഈ വളവിന്റെ വലതുവശത്തുള്ള സാച്ചുറേഷൻ മേഖലയിൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് കറൻറിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് അതായത് നമ്മുടെ ആംപ്ലിഫയറിൽ ഗെയിൻ പരമാവധി വർദ്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഈ വളവുകളെല്ലാം ഫ്ലാറ്റ് ആണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല ഈ പ്രദേശത്തും VDS നൊപ്പം കറന്റ് ദുർബലമായി വർദ്ധിക്കുന്നു അതിനാൽ സാച്ചുറേഷൻ മേഖലയിലെ VDS നൊപ്പം കറന്റ് ദുർബലമായി വർദ്ധിക്കുന്നു ഉപകരണ ഭൌതികശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സാച്ചുറേഷൻ മേഖലയുടെ കറൻറ് സമവാക്യം C ox 2 W L V G S V T2 ആണ് ഇത് സാച്ചുറേഷനുവേണ്ടി ആയിരുന്നു അതായത് V G S V T യേക്കാൾ കൂടുതലാണ് V D S ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ VDS മായി ഇതിന് ബന്ധമുണ്ട് ഈ സമവാക്യത്തിൽ V D S തന്നെ ഇല്ല അതിനാൽ ഇതിടെ ഒരു അധിക ഘടകമായ 1 ƛ V D S കൊണ്ടുവരുന്നു കൂടാതെ VDS ഈ മുഴുവൻ ഭാഗവും വർദ്ധിപ്പിക്കുമ്പോൾ കറൻറും കൂടുന്നത് നിങ്ങൾക്ക് കാണാം ലാംഡയുടെ യൂണിറ്റ് ഒരു ഇൻവേഴ്സ് വോൾട്ടാണ് ഇത് സാധാരണയായി ഒരു ചെറിയ സംഖ്യയാണ് 0 05 ഇൻവേഴ്സ് വോൾട്ടുകൾ പോലെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക ഈ തിരുത്തൽ ഒന്നിനെ അപേക്ഷിച്ച് അപ്പോഴും ചെറുതാണ് ഇപ്പോഴും ഇത് സാങ്കേതികവിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലാംഡ MOS ട്രാൻസിസ്റ്ററിനായുള്ള ഒരു അഡീഷണൽ മോഡൽ പാരാമീറ്ററാണ് ഈ കറക്ഷൻ ഫാക്ടർ സാച്ചുറേഷൻ മേഖലയിൽ മാത്രമേ ദൃശ്യമാകൂ കാരണം ഈ കറൻറ് വർദ്ധിക്കുന്ന പ്രതിഭാസം ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്നറിയപ്പെടുന്നു മാത്രമല്ല ഇത് സാച്ചുറേഷൻ മേഖലയിൽ മാത്രമേ സംഭവിക്കൂ അതിനാൽ ഇപ്പോൾ ഞാൻ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ കറുപ്പ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ പദത്തിൽ നിന്ന് ലഭിക്കുന്ന കറൻറാണ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് എനിക്ക് 1 ƛ V D S എന്ന ഒരു ഘടകം ആവശ്യമുണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും സാച്ചുറേഷൻ മേഖലയിൽ കറൻറ് സാവധാനത്തിൽ വർദ്ധിക്കും അതാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് 1 ƛ VDS എന്ന ഫാക്ടർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിനാൽ ഇതാണ് MOS ട്രാൻസിസ്റ്ററിന്റെ യഥാർത്ഥ സവിശേഷതകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് ഒരു പ്രശ്നം കണ്ടെത്താൻ കഴിയും ഈ തിരുത്തൽ ഘടകം ദൃശ്യമാകുന്നത് സാച്ചുറേഷൻ മേഖലയ്ക്ക് മാത്രമാണെന്നും ട്രയോഡ് മേഖലയിലല്ലെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ട്രയോഡ് പ്രദേശം അതേപടി നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഈ സമയത്ത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ വരുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് കാരണം ഇത് വൺ പ്ലസ് ലാംഡ V ആണ് അതിനാൽ അവിടെയൊരു ഡിസ്കണ്ടിന്യൂയിറ്റി ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട MOS ട്രാൻസിസ്റ്ററിന്റെ യഥാർത്ഥ മോഡൽ വളരെ സങ്കീർണ്ണമാണ് ഇതിന് ഈ ഡിസ്കണ്ടിന്യൂയിറ്റി ഇല്ല ലളിതമായ മോഡലുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനാലാണ് നമുക്ക് ഈ പ്രശ്നമുള്ളത് പക്ഷേ അത് കുഴപ്പമില്ല എന്നാൽ ലളിതമായ മോഡലുകൾക്ക് ഇത് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ ഡിസ്കണ്ടിന്യൂയിറ്റിയേക്കുറിച്ച് വിഷമിക്കേണ്ട ഇത് യഥാർത്ഥ MOS ട്രാൻസിസ്റ്ററിൽ ഉണ്ടാകില്ല പക്ഷേ ഈ മോഡലുകൾ അവയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു ഡിസ്കണ്ടിന്യൂയിറ്റി ഉള്ളതുപോലെ നമ്മൾ ഉപയോഗിക്കും കൈകൊണ്ടുള്ള കണക്കുകൂട്ടലിന്റെ പ്രധാന ഉദ്ദേശ്യം തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നതിനാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിമുലേറ്ററിൽ അത്യാധുനിക മോഡൽ ഉപയോഗിക്കും അതിന് സാധാരണയായി നൂറുകണക്കിന് വ്യത്യസ്ത പാരാമീറ്ററുകൾ ഉണ്ട് അതിനാൽ ഈ അധിക ഘടകം ദൃശ്യമാകുന്ന പ്രതിഭാസത്തെ ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഉപകരണ ഭൌതികശാസ്ത്രത്തിലേക്ക് നോക്കിയില്ലെങ്കിൽ ഈ പദം ഒട്ടും അർത്ഥമാക്കുന്നില്ല പക്ഷേ അതൊക്കെയാണ് സാച്ചുറേഷൻ മേഖലയിൽ നിങ്ങൾ അറിയേണ്ടത് നമുക്ക് ഈ അധിക ഘടകം ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാരാമീറ്ററാണ് ലാംഡ എന്നാൽ ലാംഡ തന്നെ ട്രാൻസിസ്റ്ററിന്റെ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നു കാണാം ഈ k ലാംഡ ചില ആനുപാതിക കോൺസ്റ്റന്റ് ആണ് എന്തുകൊണ്ടാണ് ഇവ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വീണ്ടും വിഷമിക്കേണ്ട സാധാരണയായി ഈ കോഴ്സിൽ ലാംഡ തന്നെ നൽകിയിട്ടുണ്ടാകും അല്ലെങ്കിൽ k ലാംഡ നൽകും അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്പ്രെഷൻ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ മോഡൽ ഉണ്ടാക്കണം ആവശ്യമെങ്കിൽ ഇതും ഉപയോഗിച്ച് അതിനാൽ ഇത് ആംപ്ലിഫയറിൽ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും ഈ പുതിയ മോഡലിന് അനുയോജ്യമായ സ്മോൾ സിഗ്നൽ മോഡൽ ഉണ്ടാക്കികൊണ്ട് നമുക്കത് വിശകലനം ചെയ്യാം അതിനാൽ ചാനൽ ലെങ്ത് മോഡുലേഷൻ മൂലമുള്ള ഈ അധിക ഘടകം ഉൾപ്പെടുത്തികൊണ്ടുള്ള MOS ട്രാൻസിസ്റ്ററിന്റെ ലാർജ്ജ് സിഗ്നൽ മോഡലാണിത് നമുക്ക് സ്മോൾ സിഗ്നൽ മോഡൽ ഉണ്ടാക്കാം കൂടാതെ ഇത് ആംപ്ലിഫയറിൽ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം